ഒരു നല്ല ആംപ്ലിഫയർ ഉപകരണത്തിൽ അഭികാമ്യമായ ചില സവിശേഷതകളുള്ള ത്രീ ടെർമിനൽ ടു പോർട്ട് ആയ MOS ട്രാൻസിസ്റ്റർ ഞങ്ങൾ ഇപ്പോൾ അവതരിപ്പിച്ചു ഈ പാഠത്തിൽ ഞങ്ങൾ കൂടുതൽ വിശദമായി MOS ട്രാൻസിസ്റ്ററിന്റെ ഒരു സ്വഭാവം നോക്കും ഞങ്ങൾക്ക് ഗേറ്റ് ഡ്രെയിൻ സോഴ്സ് എന്നിവയുണ്ട് നമുക്ക് രണ്ട് പോർട്ട് വോൾട്ടേജുകൾ ഉണ്ട് VGS ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് VDS ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജ് കൂടാതെ ഡ്രെയിൻ കറന്റ് ID ഗേറ്റ് കറന്റ് IG പൂജ്യമാണ് ഇത് പല സന്ദർഭങ്ങളിലും വിശകലനവും രൂപകൽപ്പനയും ലളിതമാക്കുന്നു ഇപ്പോൾ ഞാൻ കറന്റിനെ വോൾട്ടേജിന്റെ ഫംഗ്ഷനായി പരുക്കനായി കാണിച്ചു ഇപ്പോൾ ഞാൻ അത് കൂടുതൽ വിശദമായി കാണിക്കും കൂടാതെ ഞാൻ നേരത്തെ സ്ഥിരാങ്കങ്ങളൊന്നും നിർവചിച്ചിട്ടില്ല ഇപ്പോൾ ഞാൻ അത് ചെയ്യും അതിനാൽ ഈ ID VGS VT എന്ന് വിളിക്കപ്പെടുന്ന ചില സ്ഥിരാങ്കങ്ങളേക്കാൾ കുറവോ തുല്യമോ ആണെങ്കിൽ ഡ്രെയിൻ കറന്റ് പൂജ്യമാണെന്ന് മാറുന്നു ഈ സ്ഥിരാങ്കങ്ങളെല്ലാം എന്താണെന്ന് ഞാൻ പിന്നീട് വിശദീകരിക്കും ID മറ്റ് ചില കോൺസ്റ്റന്റായ mu n C ox W ബൈ L മടങ്ങ് VGS മൈനസ് VT തവണ VDS മൈനസ് VDS സ്ക്വയർ ബൈ രണ്ടിന് തുല്യമാണ് VGS VT നേക്കാൾ കൂടുതലാണ് കൂടാതെ ഡ്രയിൻ സോഴ്സ് വോൾട്ടേജ് VDS VGS മൈനസ് VTനേക്കാൾ കുറവുമാണ് ഇവിടെ മൂന്നാമതായി ഒരു റീജിയൻ ഉണ്ട് ഇവിടെ കറന്റ് കോൺസ്റ്റന്റ് mu n C ox ന്റെ 2 മടങ്ങും ആയി ഗുണിച് W L കൊണ്ട് ഹരിക്കുന്നു ഇത് ട്രാന്സിസ്റ്ററിന്റെ മറ്റൊരു കോൺസ്റ്റന്റ് ആയ VGS ഇൽ നിന്നും VT സ്ക്വയർ കുറക്കുന്നതാണ് VGS VT നേക്കാൾ വലുതും VDS എന്നത് VGS മൈനസ് VT യേക്കാൾ വലുതും ആയിരിക്കുമ്പോൾ ഇത് സംഭവിക്കുന്നു ഇപ്പോൾ ആദ്യം ഞാൻ ഈ സ്ഥിരാങ്കങ്ങളെ നിർവചിക്കാം ഇലക്ട്രിക്കൽ വേരിയബിളുകൾ ഈ VGS ഉം VDS ഉം മാത്രമാണ് ശേഷിക്കുന്ന പദങ്ങൾ ട്രാൻസിസ്റ്ററിന്റെ ചില സ്ഥിരാങ്കങ്ങളാണ് ഈ VT ഉം Vt യും സൂചിപ്പിക്കുന്ന തെർമൽ വോൾട്ടേജുമായി ഇത് ആശയക്കുഴപ്പത്തിലാക്കരുത് എന്റെ കാര്യത്തിൽ തെർമൽ വോൾട്ടേജിന്റെ സബ്സ്ക്രിപ്റ്റിനായി ഞാൻ എപ്പോഴും ചെറിയക്ഷരം t ഉപയോഗിക്കുന്നു ത്രെഷോൾഡ് വോൾട്ടേജിന് വലിയക്ഷരം VT ഇത് ത്രെഷോൾഡ് വോൾട്ടേജ് എന്നറിയപ്പെടുന്നു ഇത് ട്രാൻസിസ്റ്ററിന്റെ ചില സ്ഥിരാങ്കമാണ് എന്തുകൊണ്ടാണ് ഇതിനെ ത്രെഷോൾഡ് വോൾട്ടേജ് എന്ന് വിളിക്കുന്നതെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും പ്രൈമറി കൺട്രോൾ ആയ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് ആണെങ്കിൽ ഇത് പോർട്ട് വൺ റൈറ്റ് ആണ് ഈ ത്രെഷോൾഡ് വോൾട്ടേജിനേക്കാൾ കുറവാണെങ്കിൽ ട്രാൻസിസ്റ്ററിനുള്ള പ്രാഥമിക നിയന്ത്രണം ട്രാൻസിസ്റ്റർ ഓഫ് ആണെന്നും കറന്റ് പൂജ്യമാണെന്നും നിങ്ങൾക്ക് പറയാം ഇനി ഒരു കാര്യം കൂടി ഞാൻ ഇവിടെ ഊന്നിപ്പറയാൻ ആഗ്രഹിക്കുന്നു VGS ഉം VDS ഉം പോസിറ്റീവ് ആണെന്ന് കരുതിയാണ് ഈ സമവാക്യങ്ങൾ എഴുതിയിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ട്രാൻസിസ്റ്ററിനെ അഭിമുഖീകരിക്കുമ്പോൾ വ്യത്യസ്ത ധ്രുവങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് അത് പ്രവർത്തിപ്പിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ കണ്ടെത്തിയേക്കാം എന്നാൽ ഞങ്ങളുടെ ആവശ്യങ്ങൾക്കായി ഞങ്ങൾ VGS VDS എന്നിവ പോസിറ്റീവ് ആയി കണക്കാക്കും അതിനാൽ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് ത്രെഷോൾഡ് വോൾട്ടേജിന് താഴെയാണെങ്കിൽ ട്രാൻസിസ്റ്റർ നടത്തുന്നില്ല കറന്റ് പൂജ്യമാണ് ഈ പ്രത്യേക തരം MOS ട്രാൻസിസ്റ്ററിലെ ചാർജ് കാരിയറായ ഇലക്ട്രോണുകളുടെ ചലനാത്മകതയാണ് സ്ഥിരമായ mu n ഓരോ യൂണിറ്റ് ഏരിയയിലും കുറച്ച് ഓക്സൈഡ് കപ്പാസിറ്റൻസ് ഉള്ള C ox ഉണ്ട് MOS ട്രാൻസിസ്റ്ററിന്റെ ഹൃദയഭാഗത്ത് ഒരു കപ്പാസിറ്റർ ഉണ്ടെന്നും ഇത് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് സാന്ദ്രതയാണെന്നും ആകുന്നു യൂണിറ്റ് ഏരിയയിൽ കപ്പാസിറ്റൻസ് W എന്നത് ട്രാൻസിസ്റ്ററിന്റെ വീതിയും L എന്നത് ട്രാൻസിസ്റ്ററിന്റെ നീളവുമാണ് MOS ട്രാൻസിസ്റ്ററിന്റെ ഫിസിക്കൽ പ്ലാൻ വീക്ഷണം നോക്കിയാൽ ഒരു നിശ്ചിത നീളം ഉണ്ട് ഈ വശം സോഴ്സാണ് ഈ വശം ഡ്രെയിനാണ് ഒരു നിശ്ചിത വീതിയും ഉണ്ട് അതിനാൽ ഇത് ഇങ്ങനെയാണ് ട്രാൻസിസ്റ്ററിന്റെ വീതിയിലുടനീളം ഡ്രെയിനിൽ നിന്ന് സോഴ്സിലേക്ക് കറന്റ് ഒഴുകുന്നു അത് ഡ്രെയിനിൽ നിന്ന് സോഴ്സിലേക്ക് പോകുന്നു ഡ്രെയിനും സോഴ്സും തമ്മിലുള്ള ദൂരമാണ് നീളം വൈദ്യുത പ്രവാഹം ഒഴുകുന്ന ഈ പ്രദേശത്തിന്റെ വീതി അത് W ആണ് ഇപ്പോൾ നമ്മുടെ ഉദ്ദേശ്യങ്ങൾക്കായി ഇവയെല്ലാം അറിയേണ്ടതില്ല നിങ്ങൾ ഒരു IC രൂപകൽപന ചെയ്യുമ്പോൾ നിങ്ങളുടേതായ W ഉം L ഉം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ടെന്ന് ഇപ്പോൾ തെളിഞ്ഞു എന്നാൽ നിങ്ങൾക്ക് ഒരു വ്യതിരിക്ത ട്രാൻസിസ്റ്റർ ഉള്ളപ്പോൾ W L എന്നിവ നിങ്ങൾക്കായി നിശ്ചയിച്ചിരിക്കുന്നു അതിനാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ദൃശ്യമാകുന്ന ഈ ഉൽപ്പന്നം മുഴുവനും നമുക്ക് എടുക്കാം mu n C ox W ൽ L mu n C ox W ൽ L ഇത് ഈ പദങ്ങളിലെല്ലാം ചില ഒറ്റ സ്ഥിരാങ്കങ്ങളായി കാണപ്പെടുന്നു mu n C ox W എന്നത് L കൊണ്ട് K n ആയി ഞാൻ നിർവ്വചിക്കും ഇത് MOS ട്രാൻസിസ്റ്ററിന്റെ കറന്റ് ഘടകം എന്നറിയപ്പെടുന്നു അതിനാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം K n സ്ഥിരമാണ് കൂടാതെ W ഉം L ഉം വ്യത്യാസപ്പെടുന്ന പ്രവർത്തനങ്ങളിലോ അസൈൻമെന്റുകളിലോ എന്തെങ്കിലും പ്രശ്നമുണ്ടാകാം പക്ഷേ mu n C ox അത് ഞങ്ങൾക്ക് ഒരു കോൺസ്റ്റന്റ് മാത്രമാണ് ഇത് ട്രാൻസിസ്റ്റർ നിർമ്മിക്കുന്ന പ്രോസസ്സിംഗിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് ഞങ്ങൾക്ക് അത് മാറ്റാൻ കഴിയില്ല അതുപോലെ VT നമുക്ക് മറ്റൊരു സ്ഥിരാങ്കമാണ് അതിനാൽ MOS ട്രാൻസിസ്റ്ററിന്റെ ഈ വിവരണത്തിൽ രണ്ട് സ്ഥിരാങ്കങ്ങൾ ഉണ്ട് കറന്റ് ഘടകം K n ഒപ്പം ത്രെഷോൾഡ് വോൾട്ടേജ് VT ഇപ്പോൾ മുമ്പ് ഞാൻ ഈ പദപ്രയോഗം മാത്രം കാണിച്ചു അവസാനത്തേത് എന്തുകൊണ്ടാണ് അത് കാരണം ഈ സാഹചര്യത്തിൽ നിങ്ങൾ ഡ്രെയിൻ ഗേറ്റ് സോഴ്സ് വോൾട്ടേജിനെ പോർട്ട് ഒന്നിലെ വോൾട്ടേജിനെ നന്നായി ആശ്രയിച്ചിരിക്കുന്നുവെന്ന് കാണാൻ കഴിയും ഇത് പോർട്ട് ടു വോൾട്ടേജിനെ ആശ്രയിക്കുന്നില്ല ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജിനെ തന്നെ ആശ്രയിക്കുന്നില്ല ഇതാണ് പ്രദേശം നിങ്ങൾ ഒരു ആംപ്ലിഫയർ ആയി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു കാരണം നിങ്ങൾ ഈ പ്രദേശം നോക്കുകയാണെങ്കിൽ ആദ്യം ട്രാൻസിസ്റ്റർ വെട്ടിമാറ്റിയ ആദ്യത്തെ പ്രദേശം ഉപയോഗശൂന്യമാണ് കറന്റ് തീരെ ഇല്ല ഉപകരണത്തിൽ നിന്ന് ഏതെങ്കിലും ആംപ്ലിഫിക്കേഷൻ ഉണ്ടാകാൻ സാധ്യതയില്ല ഇപ്പോൾ ഈ മേഖലയിൽ കറന്റ് VGS VDS എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു ഇത് അഭികാമ്യമല്ല കാരണം ഈ സാഹചര്യത്തിൽ y22 പാരാമീറ്റർ പൂജ്യമാകില്ലെന്ന് നിങ്ങൾ കാണുന്നു ഇവിടെ ഇത് പൂജ്യമാണ് ഇത് പ്രവർത്തനത്തിന്റെ അഭികാമ്യമായ മേഖലയാണ് അതിനാൽ ട്രാൻസിസ്റ്റർ കറന്റ് നടത്താത്ത ഈ പ്രദേശത്തെ കട്ട് ഓഫ് എന്ന് വിളിക്കുന്നു ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് ത്രെഷോൾഡ് വോൾട്ടേജിന് താഴെയാണെങ്കിൽ ഇത് സംഭവിക്കുന്നു അതിനാലാണ് ഇതിനെ ത്രെഷോൾഡ് വോൾട്ടേജ് എന്ന് വിളിക്കുന്നത് രണ്ടാമത്തെ മേഖല അവിടെ കറന്റ് ഉണ്ടെങ്കിലും അത് VGS VDS എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു ഇത് ട്രയോഡ് മേഖല അല്ലെങ്കിൽ ലീനിയർ റീജിയൻ എന്നാണ് അറിയപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഇതിനെ ട്രയോഡ് അല്ലെങ്കിൽ ലീനിയർ റീജിയൻ എന്ന് വിളിക്കുന്നത് എന്ന് നമുക്ക് പിന്നീട് നോക്കാം ഇത് ഞങ്ങൾക്ക് ഏറ്റവും താൽപ്പര്യമുള്ള മേഖലയാണ് ഇതിനെ സാച്ചുറേഷൻ മേഖല എന്ന് വിളിക്കുന്നു ഇതിനെ സാച്ചുറേഷൻ റീജിയൻ എന്നും മറ്റും വിളിക്കുന്നതിന് ചില ചരിത്രപരമായ കാരണങ്ങളുണ്ട് പക്ഷേ നമ്മൾ അറിയേണ്ടത് ട്രാൻസിസ്റ്റർ ഓണാകണമെങ്കിൽ VT യെക്കാൾ വലുതായിരിക്കണം VGS എന്നത് കൂടാതെ VDS എന്നത് VGS മൈനസ് VT എന്നതിനേക്കാൾ വലുതായിരിക്കണം അതാണ് പോർട്ട് രണ്ടിൽ ഉള്ള ഈ വോൾട്ടേജ് എന്ന് നമ്മൾ പറയുന്നത് ഈ ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജ് ഒരു നിശ്ചിത മൂല്യത്തേക്കാൾ വലുതായിരിക്കണം ഇപ്പോൾ വൈവിധ്യമാർന്ന ട്രാൻസിസ്റ്ററുകൾ ഉണ്ട് ഒന്നാമതായി ഈ പ്രത്യേക ട്രാൻസിസ്റ്റർ nMOS ട്രാൻസിസ്റ്റർ എന്ന് വിളിക്കപ്പെടുന്ന ഒരു പ്രത്യേക തരവുമായി യോജിക്കുന്നു കൂടാതെ nMOS ട്രാൻസിസ്റ്ററുകളിൽ പോലും വ്യത്യസ്ത തരങ്ങളുണ്ട് അവിടെ നിങ്ങൾക്ക് VT പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ആകാം ലാളിത്യത്തിനും കൂടാതെ ഇത് ഏറ്റവും സാധാരണയായി ഉപയോഗിക്കുന്ന കേസായതിനാൽ ത്രെഷോൾഡ് വോൾട്ടേജും പോസിറ്റീവ് ആയ ഒരു കേസ് ഞങ്ങൾ അനുമാനിക്കും അതിനാൽ ഇത് MOS ട്രാൻസിസ്റ്ററിന്റെ സവിശേഷതകളുടെ ദ്രുത സംഗ്രഹമാണ് അതിനാൽ ചുരുക്കത്തിൽ ഞങ്ങൾക്ക് കുറഞ്ഞത് ഒരു പ്രവർത്തന മേഖലയെങ്കിലും ഉണ്ട് ചില ഓപ്പറേറ്റിംഗ് പോയിന്റുകൾ ഉണ്ട് അവിടെ കറന്റ് ശക്തമായി VGS നെ ആശ്രയിച്ചിരിക്കുന്നു എന്നാൽ VDS നെ ആശ്രയിക്കുന്നില്ല അതിനാൽ ഒരു ആംപ്ലിഫയർ തിരിച്ചറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുമ്പോൾ ഞങ്ങൾ സാച്ചുറേഷൻ മേഖലയിലെ പ്രവർത്തന പോയിന്റ് സജ്ജീകരിക്കേണ്ടതുണ്ട് ചെറിയ സിഗ്നൽ മോഡലിലേക്ക് കൂടുതൽ കൂടുതൽ പോയി എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കുമ്പോൾ ഈ പോയിന്റ് കൂടുതൽ വ്യക്തമാകും